പേറ്റന്റബിലിറ്റി തിരയൽ ആവശ്യപെടുന്നതിനുള്ള കാരണങ്ങൾ പേറ്റന്റെബിലിറ്റി തിരയൽ ഒരു പേറ്റന്റ് ഫയൽ ചെയ്യണോ വേണ്ടയോ എന്ന് തിരുമാനിക്കുന്നതിന് വേണ്ടിയാണ് നടത്തപ്പെടുന്നത് പേറ്റന്റബിലിറ്റി തിരയൽ ആവശ്യപെടുന്നതിനുള്ള കാരണങ്ങൾ പേറ്റന്റെബിലിറ്റി തിരയൽ ഒരു പേറ്റന്റ് ഫയൽ ചെയ്യണോ വേണ്ടയോ എന്ന് തിരുമാനിക്കുന്നതിന് വേണ്ടിയാണ് നടത്തപ്പെടുന്നത് പേറ്റന്റബിലിറ്റി തിരയലിന് ഓർഡർ നൽകുന്നതിന് കുറഞ്ഞത് 5 കാരണങ്ങളെങ്കിലും ഉണ്ടാകാം പേറ്റന്റബിലിറ്റി തിരയലിന് ഓർഡർ നൽകുന്നതിന് കുറഞ്ഞത് 5 കാരണങ്ങളെങ്കിലും ഉണ്ടാകാം ആദ്യത്തേത് മുതൽമുടക്കാണ് ആദ്യത്തേത് മുതൽമുടക്കാണ് പേറ്റന്റ് അപേക്ഷ ഫയൽ ചെയ്യുന്നതിനേക്കാൾ പേറ്റന്റബിലിറ്റി തിരയൽ നടത്തുന്നതിന് ചിലവാകുന്ന തുക താരതമ്യേന്നേ കുറവാണ് പേറ്റന്റ് അപേക്ഷ ഫയൽ ചെയ്യുന്നതിനേക്കാൾ പേറ്റന്റബിലിറ്റി തിരയൽ നടത്തുന്നതിന് ചിലവാകുന്ന തുക താരതമ്യേന്നേ കുറവാണ് ഒരു ഗ്രാന്റ് ലഭിക്കാവുന്നതിന്റെ സാധ്യതയെ കുറിച്ച് ഒരു പേറ്റന്റബിലിറ്റി തിരയൽ സൂചന നൽകുന്നു ഒരു ഗ്രാന്റ് ലഭിക്കാവുന്നതിന്റെ സാധ്യതയെ കുറിച്ച് ഒരു പേറ്റന്റബിലിറ്റി തിരയൽ സൂചന നൽകുന്നു അതായത് ഇത് നഷ്ടം ലഘൂകരിക്കാനുള്ള ശ്രമമാണ് എന്നർത്ഥം അതായത് ഇത് നഷ്ടം ലഘൂകരിക്കാനുള്ള ശ്രമമാണ് എന്നർത്ഥം ഒരു പേറ്റന്റ് അനുവദിക്കാനുള്ള സാധ്യത പേറ്റന്റബിലിറ്റി തിരയലിലൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഒരു പേറ്റന്റ് അനുവദിക്കാനുള്ള സാധ്യത പേറ്റന്റബിലിറ്റി തിരയലിലൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിയും മറ്റ് പേറ്റന്റുകൾ ഉള്ള തിരക്കേറിയ ഒരു പഠനപ്രവർത്തന മേഖലയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നെതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടെത്തൽ പേറ്റന്റ് നിയമത്തിലെ ചില എതിർപ്പുകളോ ഒഴിവാക്കലുകളോ കാരണം പേറ്റന്റ് അനുവദിക്കപ്പെടാൻ സാധ്യതയില്ലാത്തതാണെങ്കിൽ പേറ്റന്റ് ഫയൽ ചെയ്ത് നിങ്ങളുടെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് നേടാൻ കഴിയില്ലെന്ന് ഔദ്യോഗികകമായ എതിർപ്പുകളിലൂടെ മനസ്സിലാക്കിയ ശേഷം അത് തള്ളപ്പെടുന്നതിനേക്കാൾ ലാഭകരം പേറ്റന്റബിലിറ്റി തിരയൽ നടത്തുന്നതാണ് മറ്റ് പേറ്റന്റുകൾ ഉള്ള തിരക്കേറിയ ഒരു പഠനപ്രവർത്തന മേഖലയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നെതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടെത്തൽ പേറ്റന്റ് നിയമത്തിലെ ചില എതിർപ്പുകളോ ഒഴിവാക്കലുകളോ കാരണം പേറ്റന്റ് അനുവദിക്കപ്പെടാൻ സാധ്യതയില്ലാത്തതാണെങ്കിൽ പേറ്റന്റ് ഫയൽ ചെയ്ത് നിങ്ങളുടെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് നേടാൻ കഴിയില്ലെന്ന് ഔദ്യോഗികകമായ എതിർപ്പുകളിലൂടെ മനസ്സിലാക്കിയ ശേഷം അത് തള്ളപ്പെടുന്നതിനേക്കാൾ ലാഭകരം പേറ്റന്റബിലിറ്റി തിരയൽ നടത്തുന്നതാണ് അതായത് ഇതിൽ മുതൽമുടക്ക് എന്ന ഒരു ഘടകമുണ്ട് അതായത് ഇതിൽ മുതൽമുടക്ക് എന്ന ഒരു ഘടകമുണ്ട് പ്രഥമമായുംചിലവ് ചുരുക്കാനായിട്ടാണ് നിങ്ങൾ പേറ്റന്റിബിലിറ്റി തിരയലിൽ ഏർപ്പെടുന്നത് പ്രഥമമായുംചിലവ് ചുരുക്കാനായിട്ടാണ് നിങ്ങൾ പേറ്റന്റിബിലിറ്റി തിരയലിൽ ഏർപ്പെടുന്നത് പേറ്റന്റബിലിറ്റി തിരയലിന്റെ റിപ്പോർട്ട് നിങ്ങളെ കുറച്ചുകൂടി മെച്ചമായ അപ്ലിക്കേഷൻ തയ്യാറാക്കാൻ സഹായിക്കും എന്നതാണ് രണ്ടാമത്തെ കാരണം പേറ്റന്റബിലിറ്റി തിരയലിന്റെ റിപ്പോർട്ട് നിങ്ങളെ കുറച്ചുകൂടി മെച്ചമായ അപ്ലിക്കേഷൻ തയ്യാറാക്കാൻ സഹായിക്കും എന്നതാണ് രണ്ടാമത്തെ കാരണം ഒരിക്കൽ നിങ്ങൾ ഒരു പേറ്റൻസിബിലിറ്റി തിരയൽ നടത്തിയാൽ നമ്മൾ ഇതിനകം ചർച്ച ചെയ്ത കണ്ടെത്തൽ സവിശേഷതകൾ പേറ്റന്റ് ചെയ്യപ്പെടാവുന്ന കണ്ടെത്തൽ സവിശേഷതകൾ മുതലായവക്ക് വേണ്ടിയുള്ള ഡ്രാഫ്റ്റിംഗ് മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും ഒരിക്കൽ നിങ്ങൾ ഒരു പേറ്റൻസിബിലിറ്റി തിരയൽ നടത്തിയാൽ നമ്മൾ ഇതിനകം ചർച്ച ചെയ്ത കണ്ടെത്തൽ സവിശേഷതകൾ പേറ്റന്റ് ചെയ്യപ്പെടാവുന്ന കണ്ടെത്തൽ സവിശേഷതകൾ മുതലായവക്ക് വേണ്ടിയുള്ള ഡ്രാഫ്റ്റിംഗ് മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും കാരണം മുൻ പേറ്റന്റ് ആർട്ട് തിരയൽ അല്ലെങ്കിൽ തിരയൽ റിപ്പോർട്ട് സമാന സ്വഭാവങ്ങളുള്ള കണ്ടെത്തലിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ തരും കാരണം മുൻ പേറ്റന്റ് ആർട്ട് തിരയൽ അല്ലെങ്കിൽ തിരയൽ റിപ്പോർട്ട് സമാന സ്വഭാവങ്ങളുള്ള കണ്ടെത്തലിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ തരും ആ കണ്ടെത്തലിന്റെ എന്ത് സവിശേഷതകളാണ് പേറ്റന്റ് ലഭിക്കുന്നതിന് കാരണമായത് എന്നും മനസിലാക്കാൻ സഹായിക്കും ആ കണ്ടെത്തലിന്റെ എന്ത് സവിശേഷതകളാണ് പേറ്റന്റ് ലഭിക്കുന്നതിന് കാരണമായത് എന്നും മനസിലാക്കാൻ സഹായിക്കും പേറ്റന്റ് ലഭിക്കാവുന്ന സവിശേഷതകളും പേറ്റന്റ് ലഭിക്കാൻ സാധ്യത ഇല്ലാത്ത നിസ്സാരമായ സവിശേഷതകളും എന്തൊക്കെയാണെന്ന് മനസിലാക്കൻ ഈ റിപ്പോർട്ട് നിങ്ങളെ സഹായിക്കും പേറ്റന്റ് ലഭിക്കാവുന്ന സവിശേഷതകളും പേറ്റന്റ് ലഭിക്കാൻ സാധ്യത ഇല്ലാത്ത നിസ്സാരമായ സവിശേഷതകളും എന്തൊക്കെയാണെന്ന് മനസിലാക്കൻ ഈ റിപ്പോർട്ട് നിങ്ങളെ സഹായിക്കും ഡ്രാഫ്റ്റിംഗിൽ ഇത് പ്രധാനമാണ് ഡ്രാഫ്റ്റിംഗിൽ ഇത് പ്രധാനമാണ് പേറ്റന്റ് അറ്റോർണിക്ക് പഠനമേഖലയെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത സാഹചര്യങ്ങളിൽ ക്ലെയിമിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന കണ്ടെത്തൽ സവിശേഷതകൾ എന്തൊക്കെയാണ് ക്ലെയിമിൽ ഉന്നയിക്കാൻ പാടില്ലാത്ത നോൺ ഇൻവെന്റീവ് അല്ലെങ്കിൽ നോൺ പേറ്റന്റെബിലിറ്റി സവിശേഷതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നിർണ്ണയിക്കാൻ പേറ്റന്റ് ഏജന്റിനെ ഇത് സഹായിക്കുന്നു പേറ്റന്റ് അറ്റോർണിക്ക് പഠനമേഖലയെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത സാഹചര്യങ്ങളിൽ ക്ലെയിമിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന കണ്ടെത്തൽ സവിശേഷതകൾ എന്തൊക്കെയാണ് ക്ലെയിമിൽ ഉന്നയിക്കാൻ പാടില്ലാത്ത നോൺ ഇൻവെന്റീവ് അല്ലെങ്കിൽ നോൺ പേറ്റന്റെബിലിറ്റി സവിശേഷതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നിർണ്ണയിക്കാൻ പേറ്റന്റ് ഏജന്റിനെ ഇത് സഹായിക്കുന്നു പേറ്റന്റബിലിറ്റി തിരയൽ റിപ്പോർട്ട് സൃഷ്ടിക്കുന്നതിൽ മറ്റൊരു നേട്ടം കൂടിയുണ്ട് പേറ്റന്റബിലിറ്റി തിരയൽ റിപ്പോർട്ട് സൃഷ്ടിക്കുന്നതിൽ മറ്റൊരു നേട്ടം കൂടിയുണ്ട് ഒരു അപേക്ഷ തയ്യാറാക്കുമ്പോൾ ഡ്രാഫ്റ്റിംഗ് പ്രക്രിയയിൽ സമയവും ഊർജ്ജവും ലാഭിക്കുന്നതിന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഒരു അപേക്ഷ തയ്യാറാക്കുമ്പോൾ ഡ്രാഫ്റ്റിംഗ് പ്രക്രിയയിൽ സമയവും ഊർജ്ജവും ലാഭിക്കുന്നതിന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നിങ്ങൾ പേറ്റന്റ് സവിശേഷത തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ പേറ്റന്റ് ആപ്ലിക്കേഷനിൽ പുനർനിർമ്മിക്കാൻ കഴിയുന്ന മുൻ ആർട്ടിന്റെ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ശരിയായ റഫറൻസ് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ആ മുൻ ആർട്ട് റഫറൻസുകൾ കോപ്പി പേസ്റ്റ് ചെയ്യാൻ കഴിയും നിങ്ങൾ പേറ്റന്റ് സവിശേഷത തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ പേറ്റന്റ് ആപ്ലിക്കേഷനിൽ പുനർനിർമ്മിക്കാൻ കഴിയുന്ന മുൻ ആർട്ടിന്റെ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ശരിയായ റഫറൻസ് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ആ മുൻ ആർട്ട് റഫറൻസുകൾ കോപ്പി പേസ്റ്റ് ചെയ്യാൻ കഴിയും അതിനാൽ നിങ്ങളുടെ കണ്ടെത്തലിന്റെ പശ്ചാത്തലം സൃഷ്ടിക്കുന്ന മുൻ ആർട്ട് വെളിപ്പെടുത്തലുകൾ ഉണ്ടെങ്കിൽ അവ പരാമർശിക്കുന്ന പക്ഷം നിങ്ങൾക്ക് മുൻപ് ഫയൽ ചെയ്യപ്പെട്ടിട്ടുള്ള പേറ്റന്റ് അപേക്ഷകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ് അതിനാൽ നിങ്ങളുടെ കണ്ടെത്തലിന്റെ പശ്ചാത്തലം സൃഷ്ടിക്കുന്ന മുൻ ആർട്ട് വെളിപ്പെടുത്തലുകൾ ഉണ്ടെങ്കിൽ അവ പരാമർശിക്കുന്ന പക്ഷം നിങ്ങൾക്ക് മുൻപ് ഫയൽ ചെയ്യപ്പെട്ടിട്ടുള്ള പേറ്റന്റ് അപേക്ഷകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ് മൂന്നാമത്തേത് വാണിജ്യവുമായി ബന്ധപ്പെട്ട കാരണങ്ങളായിരിക്കാം മൂന്നാമത്തേത് വാണിജ്യവുമായി ബന്ധപ്പെട്ട കാരണങ്ങളായിരിക്കാം ആളുകൾ പേറ്റന്റുകൾ ഫയൽ ചെയ്യുന്നതിനുള്ള കാരണം ഈ രംഗത്ത് ഒഴിവാക്കാനാവാത്ത ഒരു പ്രത്യേകത നേടുക എന്നതാണ് ആളുകൾ പേറ്റന്റുകൾ ഫയൽ ചെയ്യുന്നതിനുള്ള കാരണം ഈ രംഗത്ത് ഒഴിവാക്കാനാവാത്ത ഒരു പ്രത്യേകത നേടുക എന്നതാണ് പേറ്റന്റ് ഫയൽ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അത്തരമൊരു പ്രത്യേകത കൈവരിക്കാൻ കഴിയുമോ എന്ന് ഒരു മുൻ ആർട്ട് റിപ്പോർട്ടോ പേറ്റന്റബിലിറ്റി തിരയൽ റിപ്പോർട്ടോ നിങ്ങളെ അറിയിക്കും പേറ്റന്റ് ഫയൽ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അത്തരമൊരു പ്രത്യേകത കൈവരിക്കാൻ കഴിയുമോ എന്ന് ഒരു മുൻ ആർട്ട് റിപ്പോർട്ടോ പേറ്റന്റബിലിറ്റി തിരയൽ റിപ്പോർട്ടോ നിങ്ങളെ അറിയിക്കും ഇതരമാർഗങ്ങൾ എന്തൊക്കെയാണെന്നും ബദലുകളിലൂടെ ഇപ്പോഴുള്ള ഒരു കണ്ടത്തെലിനെ മറികടക്കാൻ സാധ്യമായ വഴികൾ എന്തൊക്കെയാണെന്നും ഇതിന് നിങ്ങളോട് പറയാൻ കഴിയും ഇതരമാർഗങ്ങൾ എന്തൊക്കെയാണെന്നും ബദലുകളിലൂടെ ഇപ്പോഴുള്ള ഒരു കണ്ടത്തെലിനെ മറികടക്കാൻ സാധ്യമായ വഴികൾ എന്തൊക്കെയാണെന്നും ഇതിന് നിങ്ങളോട് പറയാൻ കഴിയും ഇത് ഒരു പേറ്റന്റ് ലഭിക്കുന്നതിന് ന്യായമായ അവസരം നിങ്ങൾക്ക് നൽകും ഇത് ഒരു പേറ്റന്റ് ലഭിക്കുന്നതിന് ന്യായമായ അവസരം നിങ്ങൾക്ക് നൽകും മാത്രമല്ല മറ്റുള്ളവർ നിങ്ങളുടെ കണ്ടത്തെലിനെ അനുകരിക്കാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് മനസിലാക്കാനും സഹായിക്കും മാത്രമല്ല മറ്റുള്ളവർ നിങ്ങളുടെ കണ്ടത്തെലിനെ അനുകരിക്കാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് മനസിലാക്കാനും സഹായിക്കും കാരണം ഇത് ഒരു തിരക്കേറിയ പഠനമേഖലയാണെങ്കിൽ ഒരു മത്സരാർത്ഥിക്ക് പേറ്റന്റ് അനുവദിക്കപ്പെട്ട മറ്റൊരു കണ്ടെത്തലിന് ലൈസൻസ് നേടാനും അതോടൊപ്പം വിപണിയിൽ തുടരാനും കഴിയും കാരണം ഇത് ഒരു തിരക്കേറിയ പഠനമേഖലയാണെങ്കിൽ ഒരു മത്സരാർത്ഥിക്ക് പേറ്റന്റ് അനുവദിക്കപ്പെട്ട മറ്റൊരു കണ്ടെത്തലിന് ലൈസൻസ് നേടാനും അതോടൊപ്പം വിപണിയിൽ തുടരാനും കഴിയും പേറ്റന്റ് ലഭിക്കാനുള്ള സാധ്യതയും നിങ്ങളുടെ കണ്ടെത്തലിന് ഒരു എക്സ്ക്ലൂസീവ് മാർക്കറ്റ് ലഭിക്കാനുള്ള സാധ്യതയും അന്വേഷിക്കുക എന്നതാണ് പേറ്റന്റെബിലിറ്റി തിരയൽ നടത്തുന്നതിന്റെ വാണിജ്യപരമായ കാരണങ്ങൾ പേറ്റന്റ് ലഭിക്കാനുള്ള സാധ്യതയും നിങ്ങളുടെ കണ്ടെത്തലിന് ഒരു എക്സ്ക്ലൂസീവ് മാർക്കറ്റ് ലഭിക്കാനുള്ള സാധ്യതയും അന്വേഷിക്കുക എന്നതാണ് പേറ്റന്റെബിലിറ്റി തിരയൽ നടത്തുന്നതിന്റെ വാണിജ്യപരമായ കാരണങ്ങൾ പേറ്റന്റുകൾ ഫയൽ ചെയ്യുന്നതിന് ഗണ്യമായ ധനനിക്ഷേപം ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ ഒരു പേറ്റന്റബിലിറ്റി റിപ്പോർട്ട് നിങ്ങൾ ഒരു കണ്ടെത്തലുമായി മുന്നോട്ട് പോകണോ എന്ന് നിങ്ങളെ അറിയിക്കുന്നു പേറ്റന്റുകൾ ഫയൽ ചെയ്യുന്നതിന് ഗണ്യമായ ധനനിക്ഷേപം ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ ഒരു പേറ്റന്റബിലിറ്റി റിപ്പോർട്ട് നിങ്ങൾ ഒരു കണ്ടെത്തലുമായി മുന്നോട്ട് പോകണോ എന്ന് നിങ്ങളെ അറിയിക്കുന്നു കണ്ടെത്തൽ നടത്തിയ വ്യക്തിക്ക് കണ്ടെത്തലിന്റെ മൂല്യം നിർണായകമാണെങ്കിൽ പേറ്റന്റബിലിറ്റി തിരയലിനപ്പുറം ഒരു സാധുതാ തിരയലോ സാധുതാ പഠനമോ ആവശ്യപ്പെടാവുന്നതാണ് കണ്ടെത്തൽ നടത്തിയ വ്യക്തിക്ക് കണ്ടെത്തലിന്റെ മൂല്യം നിർണായകമാണെങ്കിൽ പേറ്റന്റബിലിറ്റി തിരയലിനപ്പുറം ഒരു സാധുതാ തിരയലോ സാധുതാ പഠനമോ ആവശ്യപ്പെടാവുന്നതാണ് ഈ 2 റിപ്പോർട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഇതിനകം മനസ്സിലാക്കിയതാണ് ഈ 2 റിപ്പോർട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഇതിനകം മനസ്സിലാക്കിയതാണ് പ്രോസിക്യൂഷൻ ഹിസ്റ്ററി എസ്റ്റോപ്പെൽ ഒഴിവാക്കാൻ പേറ്റന്റബിലിറ്റി റിപ്പോർട്ട് സഹായിക്കും എന്നതാണ് നാലാമത്തെ കാരണം പ്രോസിക്യൂഷൻ ഹിസ്റ്ററി എസ്റ്റോപ്പെൽ ഒഴിവാക്കാൻ പേറ്റന്റബിലിറ്റി റിപ്പോർട്ട് സഹായിക്കും എന്നതാണ് നാലാമത്തെ കാരണം പ്രോസിക്യൂഷന്റെ സമയത്ത് പ്രയർ ആർട്ട് ഒഴിവാക്കാൻ ഒന്നുകിൽ നിങ്ങൾ ഒരു ക്ലെയിം ഒഴിവാവാക്കും അല്ലെങ്കിൽ അതിനെ പരിമിതപ്പെടുത്താൻ ശ്രമിക്കും പ്രോസിക്യൂഷന്റെ സമയത്ത് പ്രയർ ആർട്ട് ഒഴിവാക്കാൻ ഒന്നുകിൽ നിങ്ങൾ ഒരു ക്ലെയിം ഒഴിവാവാക്കും അല്ലെങ്കിൽ അതിനെ പരിമിതപ്പെടുത്താൻ ശ്രമിക്കും ഇതിനെയാണ് പ്രോസിക്യൂഷൻ ഹിസ്റ്ററി എസ്റ്റോപ്പെൽ എന്ന് വിളിക്കുന്നത് ഇതിനെയാണ് പ്രോസിക്യൂഷൻ ഹിസ്റ്ററി എസ്റ്റോപ്പെൽ എന്ന് വിളിക്കുന്നത് നിങ്ങൾ ഒരു ക്ലെയിം ചുരുക്കുമ്പോൾ തുല്യത സിദ്ധാന്തം പോലുള്ള ചില തത്ത്വങ്ങളുടെ പ്രയോഗികതലം ഉണ്ടായിരിക്കത്തില്ല നിങ്ങൾ ഒരു ക്ലെയിം ചുരുക്കുമ്പോൾ തുല്യത സിദ്ധാന്തം പോലുള്ള ചില തത്ത്വങ്ങളുടെ പ്രയോഗികതലം ഉണ്ടായിരിക്കത്തില്ല തുല്യത എന്ന സിദ്ധാന്തപരമായ തത്വത്തിന് പരിമിതമായ പ്രായോഗികത മാത്രമേ ഉണ്ടായിരിക്കയുള്ളു തുല്യത എന്ന സിദ്ധാന്തപരമായ തത്വത്തിന് പരിമിതമായ പ്രായോഗികത മാത്രമേ ഉണ്ടായിരിക്കയുള്ളു ഒരു മുൻ ആർട്ട് തിരയൽ നടത്തുന്നതിലൂടെയും പേറ്റന്റബിലിറ്റി തിരയൽ റിപ്പോർട്ട് സൃഷ്ടിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് സ്വയം പരിരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു ക്ലെയിം എങ്ങനെ ഡ്രാഫ്റ്റുചെയ്യാമെന്ന് മനസിലാക്കാൻ കഴിയും ഒരു മുൻ ആർട്ട് തിരയൽ നടത്തുന്നതിലൂടെയും പേറ്റന്റബിലിറ്റി തിരയൽ റിപ്പോർട്ട് സൃഷ്ടിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് സ്വയം പരിരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു ക്ലെയിം എങ്ങനെ ഡ്രാഫ്റ്റുചെയ്യാമെന്ന് മനസിലാക്കാൻ കഴിയും മാത്രമല്ല ഭാവി ഭേദഗതിയിൽ നിന്നും സ്വയം പരിരക്ഷിക്കാനും ഇതിലൂടെ കഴിയും മാത്രമല്ല ഭാവി ഭേദഗതിയിൽ നിന്നും സ്വയം പരിരക്ഷിക്കാനും ഇതിലൂടെ കഴിയും പേറ്റന്റബിലിറ്റി തിരയലിലൂടെ പഠനമേഖലയെ കുറിച്ച് മനസിലാക്കിയാണ് ഇത് ചെയ്യുന്നത് പേറ്റന്റബിലിറ്റി തിരയലിലൂടെ പഠനമേഖലയെ കുറിച്ച് മനസിലാക്കിയാണ് ഇത് ചെയ്യുന്നത് ഈ തത്വം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഫെസ്റ്റോ കേസിൽ സ്ഥാപിതമായി ഈ തത്വം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഫെസ്റ്റോ കേസിൽ സ്ഥാപിതമായി ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഒരു ഭേദഗതി ഒഴിവാക്കാൻ പേറ്റന്റബിലിറ്റി റിപ്പോർട്ട് നിങ്ങളെ സഹായിക്കും ഞാൻ സൂചിപ്പിച്ച ഭാവി ഭേദഗതി പ്രോസിക്യൂഷൻ ഹിസ്റ്ററി എസ്റ്റോപ്പലിനെ അനുസരിച്ചായിരിക്കും ബാധിക്കുക ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഒരു ഭേദഗതി ഒഴിവാക്കാൻ പേറ്റന്റബിലിറ്റി റിപ്പോർട്ട് നിങ്ങളെ സഹായിക്കും ഞാൻ സൂചിപ്പിച്ച ഭാവി ഭേദഗതി പ്രോസിക്യൂഷൻ ഹിസ്റ്ററി എസ്റ്റോപ്പലിനെ അനുസരിച്ചായിരിക്കും ബാധിക്കുക അതിലൂടെ പ്രോസിക്യൂഷൻ വേളയിൽ നിങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ വിശാലമായ വ്യാഖ്യാനത്തിന്റെ പ്രയോജനമോ തുല്യത എന്ന സിദ്ധാന്തമോ പേറ്റന്റ് അപേക്ഷകനിൽ പരിഗണിക്കപ്പെടില്ല അതിലൂടെ പ്രോസിക്യൂഷൻ വേളയിൽ നിങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ വിശാലമായ വ്യാഖ്യാനത്തിന്റെ പ്രയോജനമോ തുല്യത എന്ന സിദ്ധാന്തമോ പേറ്റന്റ് അപേക്ഷകനിൽ പരിഗണിക്കപ്പെടില്ല അഞ്ചാമത്തെ കാരണം വിദേശത്ത് അപേക്ഷകൾ സമർപ്പിക്കണമോ എന്ന് നിർണ്ണയിക്കാൻ പേറ്റന്റബിലിറ്റി തിരയൽ റിപ്പോർട്ട് നിങ്ങളെ സഹായിക്കും എന്നതാണ് അഞ്ചാമത്തെ കാരണം വിദേശത്ത് അപേക്ഷകൾ സമർപ്പിക്കണമോ എന്ന് നിർണ്ണയിക്കാൻ പേറ്റന്റബിലിറ്റി തിരയൽ റിപ്പോർട്ട് നിങ്ങളെ സഹായിക്കും എന്നതാണ് സാധാരണയായി അന്താരാഷ്ട്ര അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള ചെലവ് വളരെ ഉയർന്നതാണ് സാധാരണയായി അന്താരാഷ്ട്ര അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള ചെലവ് വളരെ ഉയർന്നതാണ് അതിനാൽ ഒരു എതിർപ്പിനുള്ള സാധ്യത എന്താണെന്ന് ഒരു പേറ്റന്റബിലിറ്റി റിപ്പോർട്ട് നിങ്ങളെ അറിയിക്കും അതിനാൽ ഒരു എതിർപ്പിനുള്ള സാധ്യത എന്താണെന്ന് ഒരു പേറ്റന്റബിലിറ്റി റിപ്പോർട്ട് നിങ്ങളെ അറിയിക്കും തിരയലിന് നിങ്ങൾ നൽകുന്ന അധികാരപത്രം അനുസരിച്ച് പേറ്റന്റബിലിറ്റി തിരയൽ റിപ്പോർട്ടിലൂടെ നിങ്ങൾ അപേക്ഷ ഫയൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അധികാരപരിധികളെക്കുറിച്ച് മനസിലാക്കാനും കഴിയും തിരയലിന് നിങ്ങൾ നൽകുന്ന അധികാരപത്രം അനുസരിച്ച് പേറ്റന്റബിലിറ്റി തിരയൽ റിപ്പോർട്ടിലൂടെ നിങ്ങൾ അപേക്ഷ ഫയൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അധികാരപരിധികളെക്കുറിച്ച് മനസിലാക്കാനും കഴിയും